ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മോഡൽ ഒരു ഹ്രസ്വ മൊഡ്യൂളാണ് അവിടെ നമുക്ക് op amoന്റെ DC ഓഫ്സെറ്റ് പാരാമീറ്ററുകൾ നോക്കാം ഇതിനെ ഒപ്പ് ആംപ് സ്പെസിഫിക്കേഷൻ എന്നും വിളിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞങ്ങൾ പൂർത്തിയാക്കിയതെല്ലാം വേഗത്തിൽ ഒന്നുകൂടി പറയും അതിനാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്ന് അല്ലേ നിങ്ങൾ ലബോറട്ടറിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോൺഇൻവെർട്ടിംഗ് ടെർമിനലും ഇൻവെർട്ടിംഗ് ടെർമിനലും നിലംപരിശാക്കാൻ ശ്രമിക്കുക ഔട്ട്പുട്ട് വോൾട്ടേജ് Vo എന്താണെന്ന് കാണുക അത് 0 ആയിരിക്കണം എന്നാൽ നിങ്ങൾ കണ്ടെത്തുന്നത് ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും എന്നതാണ് ഇതിനെ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നു ഇനിപ്പറയുന്നവ ഈ ഓഫ്സെറ്റിന് കാരണമാകും ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഇൻപുട്ട് ബയസ് കറന്റ് എന്നിവയാണ് ആകെ ഓഫ്സെറ്റ് വോൾട്ടേജ്ന് കാരണം എല്ലാ പാരാമീറ്ററുകളും ഞങ്ങൾ കണ്ടു ഇവയാണ് ഓഫ്സെറ്റിന് കാരണമാകുന്ന പാരാമീറ്ററുകൾ അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുന്നതിന് ഓപമ്പിന്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ പ്രയോഗിക്കേണ്ട വോൾട്ടേജാണ് നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ചെറിയ അളവിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിക്കുന്നു അതായത് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും ഒപ്പം എന്റെ ഇൻപുട്ട് ടെർമിനലുകളെ നിലവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം പക്ഷേ അത് 0 അല്ല അതിനാലാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ എനിക്ക് കുറച്ച് വോൾട്ടേജ് പ്രയോഗിക്കേണ്ടി വന്നത് അതിലൂടെ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ന് തുല്യമായി ലഭിക്കും അതായത് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അസാധുവാക്കുക സാധാരണയായി നിങ്ങൾ കാണുന്നതെന്താണെന്ന് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം സാധാരണ മൂല്യം 2 മില്ലിവോൾട്ടുകളാണ് പരമാവധി മൂല്യം 6 മില്ലിവോൾട്ടുകളാണ് സാധാരണഗതിയിൽ പ്രയോഗിക്കേണ്ട വോൾട്ടേജിന്റെ മൂല്യം 2 മില്ലിവോൾട്ടുകളും പരമാവധി 6 മില്ലിവോൾട്ടുകളുമാണ് ഒരു ഓപ്പൺ ലൂപ്പ് അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അത് അസാധുവാക്കണം അല്ലെങ്കിൽ ഉപകരണം പൂരിതമാകാം അല്ലേ കാരണം ചെറിയ അളവിലുള്ള ഇൻപുട്ട് വോൾട്ടേജിനുപോലും ഓപ്പൺ ലൂപ്പ്ൻറെ നേട്ടം ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് വർധിപ്പിക്കാൻ കഴിയും ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഓപ്പൺ ലൂപ്പിന് അനന്തമായ നേട്ടമുണ്ട് അതിനാൽ ഔട്ട്പുട്ട് പൂരിതമാകും അതിനാലാണ് ഞങ്ങൾ ഇത് ഓപ്പൺ ലൂപ്പിലോ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷനിലോ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് അസാധുവാക്കാൻ ശ്രമിക്കേണ്ടത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VIO ന്റെ സഹായത്തോടെ ഈ അസാധുവാക്കൽ നടത്താം അതിനാൽ നിങ്ങൾ അടുത്തതിലേക്ക് പോകുകയാണെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഞങ്ങൾ ഇവിടെ കണ്ടതുപോലെ ഇൻപുട്ട് കറന്റുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത് ഇതാണ് നിലവിലുള്ളതും സാധാരണയായി അസാധുവാക്കപ്പെടുന്നതും സാധാരണഗതിയിൽ കുറഞ്ഞ മൂല്യം 20 നാനോ ആമ്പിയറും പരമാവധി മൂല്യം 200 നാനോ ആമ്പിയറും അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo അസാധുവാക്കാൻ ഞങ്ങൾ സാങ്കേതികമായി എങ്ങനെ ശ്രമിക്കും Vo യെ 0 ന് തുല്യമാക്കേണ്ടത് എന്തുകൊണ്ടാണ് അതിനാൽ ആദ്യം ഞങ്ങൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇൻപുട്ട് ടെർമിനലുകൾ നിലത്തേക്ക് ചുരുക്കുന്നു നഷ്ടപരിഹാര പിന്നുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യോമീറ്റർ വൈപ്പറുമായി VEE ലേക്ക് ബന്ധിപ്പിക്കുക പിൻസ് 5 നും 1 നും ഇടയിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ ബന്ധിപ്പിക്കുന്നുവെന്ന് കാണുക ഇപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ മറ്റ് പിന്നുകളുടെ പങ്ക് ഇതാണ് ഒരു op ampന് സാധാരണയായി 8 പിൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം രണ്ടും മൂന്നും നാലും പിന്നുകൾ ഉപയോഗിക്കുന്നു നമുക്ക് അവയെ ഓരോന്നായി കാണാം ഒന്നാമത്തെ പിൻ നമ്മൾ ബന്ധിപ്പിക്കുന്നില്ല പിൻ 2 ഇൻവെർട്ടിംഗ് പിൻ ആണ് പിൻ 3 നോൺ ഇൻവെർട്ടിംഗ് പിൻ ആണ് പിൻ 4 Vcc പിൻ 5 കണക്റ്റുചെയ്തിട്ടില്ല പിൻ 6 ആണ് ഔട്ട്പുട്ട് പിൻ 7 Vcc Vo 0 ലേക്ക് ഓഫ്സെറ്റ് ചെയ്യുന്നതിന് 1 5 പിൻകൾ ഉപയോഗിക്കുന്നു പിൻ 8 കണക്റ്റുചെയ്തിട്ടില്ല അതിനാൽ 1 നും 5 നും ഇടയിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്റർ ബന്ധിപ്പിക്കാൻ കഴിയും പൊട്ടൻഷ്യോമീറ്റർ വൈപ്പറുമായി Veeലേക്ക് ബന്ധിപ്പിക്കുക ഇപ്പോൾ നമ്മൾ എന്തുചെയ്യണം പൊട്ടൻഷ്യോമീറ്റർ സാധാരണയായി 10 ടേൺ ഉപകരണമാണ് ഔട്ട്പുട്ട്ലേക്ക് മീറ്റർ കണക്റ്റുചെയ്യുക പൊട്ടൻഷ്യോമീറ്റർ ക്രമീകരിക്കുക ക്രമീകരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുക ഇത് Vee യിലേക്ക് കണക്റ്റുചെയ്യുന്നതിലൂടെയും ഞാൻ പൊട്ടൻഷ്യോമീറ്റർ മൂല്യം മാറ്റുകയാണെങ്കിൽ ഞാൻ പൊട്ടൻഷ്യോമീറ്റർ മൂല്യം മാറ്റുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു മൂല്യത്തിലെത്തുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo 0 ന് തുല്യമാകും ഔട്ട്പുട്ട് വോൾട്ടേജ് Vo അസാധുവാക്കാനുള്ള സാങ്കേതികതയാണിത് അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റും ഞങ്ങൾ കണ്ടു അല്ലേ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുകളിൽ ഒഴുകുന്ന വൈദ്യുതധാരയുടെ ശരാശരിയാണ് ഇത് മൂല്യം 7 മുതൽ 80 വരെ നാനോ ആമ്പിയർ ആണ് ഉപകരണത്തിന്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ കാണപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നു അറിയപ്പെടുന്ന ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് മൂല്യം LM741 ന് 2 മെഗാ ഓം മുതൽ FET ഇൻപുട്ട് ഉപകരണങ്ങൾക്കായി 1012 ഓംസ് വരെ ആയിരിക്കുന്നു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നാൽ ഔട്ട്പുട്ട് ടെർമിനലും നിലവും തമ്മിലുള്ള പ്രതിരോധമാണ് ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 75 ഓംസ് അല്ലെങ്കിൽ അതിൽ കുറവ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലും ഗ്രൌണ്ടും അല്ലെങ്കിൽ നോൺഇൻവെർട്ടിംഗ് ടെർമിനലും ഗ്രൌണ്ടും തമ്മിലുള്ള തുല്യ കപ്പാസിറ്റൻസ് ആണ് ഇത് എല്ലാ സ്പെസിഫിക്കേഷൻ ഷീറ്റുകളിലും ഉണ്ടാകണമെന്നില്ല അതിനാൽ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഷീറ്റ് ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് കപ്പാസിറ്റൻസ് കാണാൻ കഴിഞ്ഞേക്കില്ല സാധാരണഗതിയിൽ LM741 നുള്ള ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ മൂല്യം 1 4 പിക്കോഫറാഡ് ആണ് അതിനാൽ അത് എന്താണ് ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ നോൺഇൻവെർട്ടിംഗിൽ തുല്യമായ കപ്പാസിറ്റൻസ് അളക്കുന്നു ഇൻവെർട്ടിംഗ് ടെർമിനലും നിലവും അല്ലെങ്കിൽ നോൺഇൻവെർട്ടിംഗ് ടെർമിനലും നിലവും തമ്മിലുള്ള കപ്പാസിറ്റൻസിന് സാധാരണയായി 1 4 പിക്കോഫറാഡിന് തുല്യമായ മൂല്യമുണ്ട് വൈദ്യുതി വിതരണ ശ്രേണി എന്നാൽ എന്താണ് വൈദ്യുതി വിതരണ ശ്രേണി ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ സിംഗിൾ എൻഡ് പവർ സപ്ലൈ ആണ് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ കണ്ടു പരമാവധി പ്ലസ് മൈനസ് 20 പ്ലസ് മൈനസ് 22 വോൾട്ട് മിക്കപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത് പ്ലസ് മൈനസ് 15 വോൾട്ട് ആണ് ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗിനെക്കുറിച്ച് പറയാം ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് എന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ശ്രേണിയാണ് ഇത് പവർ സപ്ലൈ വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായി പ്ലസ് മൈനസ് 13 5 വോൾട്ട് ആണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് മൈനസ് 15 വോൾട്ട് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് എത്രമാത്രം സ്വിംഗ് ചെയ്യാൻ കഴിയും ഇതിന് പരമാവധി 85 മുതൽ 90 ശതമാനം വരെ സപ്ലൈ വോൾട്ടേജിലേക്ക് മാറാൻ കഴിയും അതിനാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വ്യാപ്തി വൈദ്യുതി വിതരണ വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് സാധാരണയായി 85 മുതൽ 95 ശതമാനം വരെയാണ് വിതരണം പ്ലസ് മൈനസ് 15 വോൾട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് സ്വിംഗ് സാധാരണയായി പ്ലസ് മൈനസ് 13 5 വോൾട്ടേജ് ആണ് അതായത് ബയസ് പ്ലസ് മൈനസ് 15 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജിലെ മാറ്റത്തിന് മറുപടിയായി സാധാരണയായി വോൾട്ടേജിലെ പരമാവധി മാറ്റത്തിന്റെ നിരക്ക് സ്ലീവ് റേറ്റ് ആണ് ഇൻപുട്ട് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് സാധാരണയായി വോൾട്ടേജിന്റെ പരമാവധി നിരക്ക് ഉപകരണത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഉയർന്നത് മികച്ചതാണ് സാധാരണയായി മാറ്റങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്നു അതായത് ഇൻപുട്ട് മാറ്റുമ്പോൾ സാധാരണയായി എത്ര വേഗത്തിൽ മാറാമെന്ന് സ്ലീവ് റേറ്റ് കാണിക്കുന്നു സ്ലീവ് റേറ്റിന്റെ പ്രവർത്തനം അതാണ് ഇപ്പോൾ LM741 സ്ലീവ് നിരക്കിന്റെ അവസാന വരി വായിച്ചാൽ ഇത് ഓരോ മൈക്രോസെക്കന്റിന് 0 5 വോൾട്ട് ആണ് LM318 ന് ഇത് ഓരോ മൈക്രോസെക്കന്റിന് 70 വോൾട്ട് ആണ് അവസാനമായി ഓപ്പൺ ലൂപ്പ് നേട്ടം 1 ആയിരിക്കുമ്പോൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്ട് എന്നത് ഉപകരണത്തിന്റെ ബാൻഡ്വിഡ്ത്ത് ആയിരിക്കും ഉപകരണത്തിന്റെ ബാൻഡ്വിഡ്ത്തിനെ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്ട് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവയെല്ലാം ഒപ്പ് ആംപ് സവിശേഷതകളാണ് ഇവയെല്ലാം ഓപ്പൺ പാരാമീറ്ററുകൾ അല്ലെങ്കിൽ ഓപാംപ് പാരാമീറ്ററുകൾ ഈ പ്രഭാഷണത്തിൽ ഇവ എല്ലാം നമ്മൾ പഠിച്ചു നമ്മുടെ അടുത്ത പ്രഭാഷണത്തിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നത് എന്ന് വിവരിക്കുന്നു അതായത് വ്യത്യസ്ത സർക്യൂട്ടുകൾ ഇൻവർട്ടിംഗ് നോൺഇൻവർട്ടിംഗ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇന്റഗ്രേറ്റർ ആഡെർ കമ്പറേറ്റർ എന്നിവയായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ കാണും അതിനാൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ വ്യത്യസ്ത സർക്യൂട്ടുകൾക്കായി ഒപ് ആമ്പുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതുവരെ ഈ പ്രത്യേക സവിശേഷതകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം കാണുക ഈ മുഴുവൻ പ്രഭാഷണവും 4 വ്യത്യസ്ത മൊഡ്യൂളുകളായി തിരിച്ചിരിക്കുന്നു എല്ലാ മൊഡ്യൂളുകളും ഒന്ന് നോക്കുക എല്ലാ മൊഡ്യൂളുകളും മനസിലാക്കുക അപ്പോൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സവിശേഷതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും അതുവരെ ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നോക്കാം